അതിനാൽ ഈ സമവാക്യം എങ്ങനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് അത് ലഭിച്ചു അത് ശരിയാക്കുക അതിനാൽ വിവേചനാധികാരം എന്ന നിലയിൽ നമ്മൾ ഇതിനകം കണ്ടിട്ടുള്ള ആദ്യത്തെ കാര്യം അതിനെ ശരിയായ ഘടകങ്ങളായി വിഭജിക്കുന്നതാണ് അതിനാൽ ഇത് ഘടകങ്ങളായി വിഭജിക്കുന്നു ഞങ്ങൾ ഇതിന് ഉപയോഗിച്ച പഴയ വാക്ക് സെഗ്മെന്റുകൾ ശരിയാണ് അതിനാൽ എന്നാൽ ഞങ്ങൾ അവയെ ഇപ്പോൾ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു 1 ഡിയിൽ നമുക്ക് അവയെ 2 ഡിയിലെ സെഗ്മെന്റുകൾ എന്ന് വിളിക്കാം അതിനെ എന്താണ് വിളിക്കുക ഞങ്ങൾ അവയെ ഘടകങ്ങൾ എന്നും വിളിക്കുന്നു എന്നാൽ ഒരു ഡൊമെയ്നെ ചെറിയ ചെറിയ ത്രികോണങ്ങളിലേക്കോ ചതുരങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആയി വിഭജിക്കുന്ന പ്രവർത്തനത്തെ ടെസലേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ കേൾക്കുന്ന മറ്റൊരു വാക്ക് അതിനാൽ വേർപിരിയൽ എന്നത് ഒരുതരം സംഭാഷണ പദമാണ് സാഹിത്യത്തിൽ നിങ്ങൾ കാണുന്ന കൂടുതൽ സാങ്കേതികമായ വാക്ക് ഡൊമെയ്നിന്റെ ടെസെലേഷൻ ആണ് അതിനാൽ ഇത് 1 ഡിയിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതിനകം അറിയാമോ അതിനെ സെഗ്മെന്റുകളായി വിഭജിക്കുക രണ്ടാം ഭാഗം നമ്മൾ ഇപ്പോൾ അടിസ്ഥാന ഫംഗ്ഷനുകളോ ആകൃതി ഫംഗ്ഷനുകളോ ഈ സാഹചര്യത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ അടിസ്ഥാന ഫംഗ്ഷനുകളുടെ കാര്യത്തിൽ എന്തുചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ ഇവിടെ ഒരു ചെറിയ സെഗ്മെന്റ് എടുത്താൽ അതിനാൽ ഇത് ചില മൂലകം e ആണ് ഇവിടെ ഈ മൂലകത്തിന്റെ രണ്ട് നോഡുകൾ ഇവയാണ് ശരി ആഗോള അജ്ഞാതർ ആണ് ഇതിൽ നമുക്ക് പറയാം ഞങ്ങൾ ഇവിടെ നൽകുന്ന പ്രാദേശിക നാമം എന്താണ് അതിനാൽ ഇത് ശരിയും ശരിയും ആയിരിക്കും ഈ വ്യക്തിയും അത് ശരിയാണ് അതിനാൽ ഇവിടെ ഇത് വീണ്ടും ഇടതുവശത്തെ സൂചിപ്പിക്കുന്നു ഇത് ഇവിടെ വലത് ശരിയെ സൂചിപ്പിക്കുന്നു അതിനാൽ ഞാൻ ഇത് വീണ്ടും എഴുതുന്നു അതിനാൽ ഞങ്ങൾക്കുള്ള ഈ കൺവെൻഷൻ നിങ്ങൾ ഉപയോഗിക്കും ഇത് തീർച്ചയായും ആഗോള ശരിയാണ് അതിനാൽ ഇതിനോടൊപ്പം ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത അടിസ്ഥാന ഫംഗ്ഷനുകൾ വലത് 1 ഉം 0 ഉം ആയിരിക്കും അപ്പോൾ ഇതിന്റെ രൂപം എന്തായിരുന്നു അതിനാൽ ഞങ്ങൾ ഇത് ഇതിനകം കണ്ടു അതുപോലെ തന്നെ ഇത് കൂട്ടിച്ചേർത്ത് ഞാൻ ഫംഗ്ഷൻ ഇവിടെ എഴുതുന്നു ഈ U ന്റെ x ഞാൻ എന്താണ് എഴുതേണ്ടത് അപ്പോൾ ഇത് ശരിയാണെന്ന് എനിക്ക് എഴുതാം പക്ഷേ ഇപ്പോൾ ഇടതുവശത്ത് നോക്കുക എന്നത് ഇടതുവശത്ത് അൽപ്പം ശ്രദ്ധിച്ചാൽ എന്താണ് കൂടുതലുള്ളത് മുഴുവൻ ഡൊമെയ്നും വലത് അതിനാൽ ഈ മുഴുവൻ ഡൊമെയ്നും നിലവിലുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറയാം വലതുവശത്തുള്ള പദം എത് സെഗ്മെന്റിൽ പൂജ്യമല്ല അപ്പോൾ യു എന്നതിന് ഒരു പൊതു പദപ്രയോഗം എങ്ങനെ എഴുതാം വിദ്യാർത്ഥി ഗുണിക്കുക ഗുണിക്കുക വിദ്യാർത്ഥി പൾസ് പൾസ് നമ്മൾ പൾസ് കൊണ്ട് ഗുണിക്കേണ്ടതില്ല കാരണം അതിനുള്ളിൽ ഇതിനകം തന്നെ പൾസ് സങ്കൽപ്പമുണ്ട് കാരണം ഞാൻ നിർവചനം അനുസരിച്ച് ഞാൻ അതിനെ പുറത്ത് 0 ആക്കി അതിനാൽ ഇതിനകം തന്നെ അവർക്ക് അതിനുള്ളിൽ പൾസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു ഫംഗ്ഷൻ യു നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ ഞാൻ x ന്റെ മൂല്യം ഇടുകയും അത് ശരിയായ സെഗ്മെന്റിലേക്ക് പോകുകയും 2 ആകൃതി ഫംഗ്ഷനുകളുടെ ഒരു രേഖീയ സംയോജനമായി നിർമ്മിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് വിദ്യാർത്ഥി സംഗ്രഹം സംഗ്രഹം കൃത്യമായി വിദ്യാർത്ഥി നോഡുകൾ ഞാൻ ഒരിക്കൽ നോഡുകളല്ല മൊത്തത്തിലുള്ള ഘടകങ്ങളെ സംഗ്രഹിക്കേണ്ടതുണ്ട് അതിനാൽ ഈ സംഗ്രഹത്തിലെ ഓരോ പദവും പൂജ്യമല്ല അതിൽ മാത്രം അത് ഒരു സ്വന്തം മൂലകമാണ് അത് മറ്റ് ഘടകത്തിലേക്ക് ഒഴുകുന്നില്ല ഇത് പൾസ് അടിസ്ഥാന പ്രവർത്തനം പോലെയാണ് അതിനാൽ സ്വയമേവ നിങ്ങൾ എനിക്ക് ശരിയായത് തരൂ ഈ നിബന്ധനകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് x വേണമെങ്കിലും എനിക്ക് താൽപ്പര്യമുള്ള വിഭാഗത്തിൽ പൂജ്യമല്ലാത്ത ഒരു പദപ്രയോഗം മാത്രമേ ഉണ്ടാകൂ അതാണ് എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫസ്റ്റ് ഓർഡർ അടിസ്ഥാന ഫംഗ്ഷൻ പോലെയുള്ള ലളിതമായ ഒരു കാര്യത്തിനായി ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ അത് ശരിക്ക് പ്രശ്നമല്ല പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഉയർന്ന ഓർഡർ ആകൃതിയിലുള്ള ഫംഗ്ഷനുകൾ ഉണ്ടായിരിക്കാം അവിടെ ഒരു സെഗ്മെന്റിന് നിങ്ങൾക്ക് 2 നോഡുകൾ 3 നോഡുകൾ 4 നോഡുകൾ എന്ന് പറയാം ഉയർന്ന ഓർഡർ പോളിനോമിയൽ വ്യക്തമാക്കുന്നതിന് എത്ര നോഡുകൾ ആവശ്യമാണ് തുടർന്ന് ഇത് എഴുതുക ഇവിടെയുള്ള ആദ്യ പ്രയോഗം മടുപ്പിക്കുന്ന ശരിയാണ് സംഗ്രഹം എല്ലാ ഘടകത്തിനും മുകളിലാണ് ഇപ്പോൾ ഓരോ മൂലകത്തിനും ഉള്ളിൽ ഈ നമ്പർ 2 ഇവിടെയുണ്ട് അടിസ്ഥാന ഫംഗ്ഷനിൽ എനിക്ക് എത്ര കൃത്യത വേണം എന്നതിനെ ആശ്രയിച്ച് ഇത് വ്യത്യാസപ്പെടാം എന്നാൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഒതുക്കമുള്ള തരത്തിൽ ഒരു നടപ്പിലാക്കൽ അല്ലെങ്കിൽ കോഡിംഗ് പ്രശ്നമാണ് അത് വളരെ വ്യക്തമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ശരിയാക്കാം അതിനാൽ ഇത് പോകുന്നിടത്തോളം ഈ പദപ്രയോഗം നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ എനിക്ക് ഇവിടെ മറ്റൊരു സെഗ്മെന്റ് ഉണ്ടെന്ന് കരുതുക അത് യാന്ത്രികമായി എല്ലാം ശരിയായി പരിപാലിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് ഈ ആളെ എടുത്ത് ദുർബലമായ ഫോമിലേക്ക് പകരക്കാരനാകണം ഈ സമവാക്യത്തിൽ ഇവിടെ മുമ്പത്തെ സമവാക്യം U എന്നത് ഈ U ശരിയാണ് ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് U യുടെ ഈ രൂപം ലഭിച്ചതിനാൽ എനിക്ക് ശരിയായത് ലഭിച്ച ഈ സമവാക്യത്തിലേക്ക് ഞാൻ പകരമായി അതിനാൽ നമുക്ക് അത് ചെയ്യാം അതിനാൽ സമവാക്യങ്ങളുടെ സിസ്റ്റം സൃഷ്ടിക്കുന്നതിന് ഞാൻ എന്താണ് എഴുതേണ്ടത് അതിനാൽ ഒന്നാമതായി ഇത് ഗലേർകിന്റെ രീതിയാണ് ആകൃതി ഫംഗ്ഷനുകളും ടെസ്റ്റിംഗ് ഫംഗ്ഷനുകളും ഒന്നുതന്നെയാണ് അതിനാൽ ഞാൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് ടെസ്റ്റിംഗ് ഫംഗ്ഷൻ പൂർണ്ണമായി അറിയാമോ അല്ലെങ്കിൽ അതിനുള്ളിൽ ചില അജ്ഞാതങ്ങളുണ്ടോ എന്ന് ഓർമ്മിക്കുക നിങ്ങൾ ഈ സമവാക്യത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ അജ്ഞാതർ എവിടേക്കാണ് പോകുന്നത് ഏത് നിബന്ധനകളാണ് അജ്ഞാതർ വഹിക്കുന്നത് ഈ സമവാക്യത്തിൽ അജ്ഞാതമായത് എന്താണ് W p U q f അജ്ഞാതമാണോ U അജ്ഞാതമാണോ അതാണ് മറ്റെല്ലാം അറിയാവുന്നത് എന്ന് കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ അത് തിരഞ്ഞെടുക്കാൻ പോകുകയാണെന്നും അറിയാം ഗാലെർകിന്റെ രീതി ശരിയാണ് അടിസ്ഥാന ഫംഗ്ഷനുകൾ ഓരോന്നിനും തുല്യമായി ഞാൻ ഇത് തിരഞ്ഞെടുക്കുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് മടങ്ങാം എന്താണ് ഞാൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് അതിനാൽ അജ്ഞാതമായത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ആൾ ശരിയാണ് ഈ ആൾ അജ്ഞാതനാണ് ഈ മറ്റ് നോഡ് ലൊക്കേഷൻ വ്യക്തമാക്കാൻ എനിക്ക് അറിയേണ്ടതെല്ലാം അറിയാവുന്ന നോഡ് ലൊക്കേഷനുകളായി ഞാൻ ഡൊമെയ്നിനെ വിഭജിച്ചതിനാൽ അറിയപ്പെടുന്നതിനാൽ ഈ വ്യക്തി പൂർണ്ണമായും അറിയപ്പെടുന്നു അപ്പോൾ ഇത് അങ്ങനെ എന്തായിരിക്കണം അതിനാൽ ചോദ്യത്തിൽ ശരി അടങ്ങിയിരിക്കുമോ അതിനാൽ നമുക്ക് ഈ സമവാക്യത്തിലേക്ക് മടങ്ങാം അതിനാൽ നിങ്ങളുടെ അജ്ഞാതമായത് നിങ്ങൾ ഇവിടെ മാറ്റിസ്ഥാപിക്കുന്നു ഇതിൽ ഉൾപ്പെടുന്നതാണ് യു എന്നതിന് പകരം വയ്ക്കുന്നത് അതിനാൽ അജ്ഞാതമായത് ഇവിടെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു ഇവിടെ ഞങ്ങൾ പറഞ്ഞു W അറിയണം പരീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല അജ്ഞാതമായ എന്തോ അപ്പോൾ എന്തായിരിക്കണം നിങ്ങൾ ചോദിക്കുന്നത് പോലെ അതിനുള്ളിൽ ഒരു അടങ്ങിയിരിക്കുന്നുവെങ്കിൽ ഈ സമവാക്യത്തിൽ എന്ത് സംഭവിക്കും ഇത് രണ്ടാമത്തെ ക്രമമായി മാറും എനിക്ക് ഒരു സ്ക്വയർ ലഭിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം പക്ഷേ അത് ചെയ്യുന്നതിലൂടെ ഒന്നും നേടാനായില്ല അപ്പോൾ പിന്നെ എന്താണ് അവശേഷിക്കുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടാകാൻ കഴിയില്ല നിങ്ങൾ പറയുന്നത് അവിടെയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്ന് പോകാം എന്ന് നോക്കാം അപ്പോൾ അതിൽ പാടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ കാരണം അത് 2 അജ്ഞാതരുടെ ഉൽപ്പന്നമായിരിക്കും അപ്പോൾ ശരിയാണ് അപ്പോൾ അവിടെ ഉണ്ടാകരുത് പിന്നെ എന്താണ് അവശേഷിക്കുന്നത് അജ്ഞാതമായ ഫംഗ്ഷൻ അതിനാൽ എനിക്ക് ഇത് തിരഞ്ഞെടുക്കാമോ ഇതിൽ എന്തെങ്കിലും ആശയപരമായ പ്രശ്നമുണ്ടോ അതിനാൽ നിങ്ങൾ ഈ സമവാക്യത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഞാൻ ഇത് പോലെയുള്ള ഒന്നായി തിരഞ്ഞെടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ സമവാക്യത്തിൽ അജ്ഞാതർ വിവിധ സ്ഥലങ്ങളിൽ ദൃശ്യമാകും മറ്റെല്ലാം സംയോജിപ്പിച്ച് ശരിയായി ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന കാര്യം നിങ്ങൾ ഉന്നയിച്ചു ഗലേർകിന്റെ രീതിയിൽ ആകൃതി അടിസ്ഥാന പ്രവർത്തനങ്ങളും ടെസ്റ്റിംഗ് ഫംഗ്ഷനുകളും ഒന്നുതന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും കുറച്ച് സ്വാതന്ത്ര്യമുണ്ട് ന്റെ ലീനിയർ കോമ്പിനേഷനുകൾ നമ്മൾ തിരഞ്ഞെടുക്കണോ അതോ തിരഞ്ഞെടുക്കണോ അതിനാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കോൺക്രീറ്റ് 1 ഡി പ്രശ്നം എടുക്കുമ്പോൾ രണ്ടും ഏതാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കാണും അതെ ശരിയാണ് അതിനാൽ ഇത് ദുർബലമായ രൂപത്തിലേക്ക് മാറ്റി ഐ ടൈം എന്നതിലേക്ക് മാറ്റേണ്ടിവരുമോ എന്നതാണ് ചോദ്യം നിങ്ങൾ പറയുന്നത് അതെ ശരി അതിനാൽ ശരി എന്ന് നമുക്ക് എഴുതാം അതിനാൽ ഞാൻ ചെയ്തതെല്ലാം U എന്നതിന് പകരം വയ്ക്കുകയാണ് ഒപ്പം w ഓകെ ആയി w ഇട്ടു അതിനാൽ ഇത് ഒരു സമവാക്യമാണ് ഇവിടെ എത്ര വേരിയബിളുകൾ ദൃശ്യമാകും U i e കളിൽ പലരും ഇവിടെ നിന്ന് ഇവിടെ വരെ ഈ സെഗ്മെന്റിൽ ഉള്ളതിനാൽ പലതരമുണ്ട് ഇവരെല്ലാം അവിടെയുണ്ട് അവരെല്ലാം ഈ സമവാക്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവയെല്ലാം ഈ സമവാക്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അതിനാൽ ഞാൻ എഴുതിയത് ആഗോള സംഖ്യകളാണ് ഇവിടെയുള്ള കാര്യങ്ങൾ ഇവ പ്രാദേശിക സംഖ്യകളാണ് എന്നാൽ പ്രാദേശികവും ആഗോളവും ആഗോളവും പ്രാദേശികവും തമ്മിൽ 1 മുതൽ 1 വരെ കത്തിടപാടുകൾ ഉണ്ട് അതിനാൽ നമുക്ക് ഇത് രണ്ട് നിബന്ധനകളിലും എഴുതാം അതിനാൽ ഇത് 5 വേരിയബിളുകളിലെ ഒരു സമവാക്യമാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ 5 വേരിയബിളുകളിൽ ഒരു ലീനിയർ സമവാക്യം കാരണം ഈ ബ്രാക്കറ്റിനുള്ളിലെ എല്ലാം ഇവിടെയുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന f നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു q നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തത് p എന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അതിനാൽ ഇത് സങ്കീർണ്ണവും വൃത്തികെട്ടതുമായി തോന്നാം പക്ഷേ ഇതിനുള്ളിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം അപ്പോൾ ഈ സംയോജനം ചെയ്യാൻ ഞാൻ പഠിച്ച ആദ്യത്തെ തന്ത്രം എന്താണ് ചതുരാകൃതിയിലുള്ള വലത് അതിനാൽ ക്വാഡ്രേച്ചർ വളരെ ലളിതമാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഏത് ശരിയുടെയും വിശദമായ വിശകലന സംയോജനം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ ക്വാഡ്രേച്ചർ റൂളിന്റെ ക്രമം വർദ്ധിപ്പിക്കാനും ഏകപക്ഷീയമായി നല്ല കൃത്യത നേടാനും കഴിയും വാസ്തവത്തിൽ നിങ്ങളുടെ N ഞാൻ അവിടെ പോകുന്നു അവ രേഖീയ ബഹുപദമാണ് അതിനാൽ അവയെ സംയോജിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ p q f എന്നിവ നന്നായി പെരുമാറുന്നിടത്തോളം ക്വാഡ്രേച്ചർ നിയമങ്ങൾ ഉപയോഗിച്ച് നൽകുന്നത് കൃത്യമായ ഉത്തരങ്ങൾ നൽകും അതിനാൽ ചെയ്യപ്പെടുന്ന മറ്റൊരു പൊതു തന്ത്രം ഈ വിവേചനാധികാരം മികച്ചതായിരിക്കുമെന്നതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു പൾസ് അടിസ്ഥാന പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ p q f എന്നിവ മാറ്റിസ്ഥാപിക്കാം അതിനാൽ ഓരോ സെഗ്മെന്റിലും അവ സ്ഥിരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം അതിനാൽ ഇവരും വെറും സംഖ്യകളായി മാറുന്നു ഓരോ സെഗ്മെന്റിനും നമ്മൾ p q f എന്നിവയുടെ മൂല്യം അല്ലെങ്കിൽ മധ്യബിന്ദു നൽകുക അതിനാൽ നിങ്ങൾക്ക് സമന്വയിപ്പിക്കാനുള്ള ഒരു ബഹുപദം മാത്രമാണ് അവശേഷിക്കുന്നത് ഇവിടെ അവസാനത്തെ ടേം ഒരു ലീനിയർ പദമായിരിക്കും ഇത് ഒരു രേഖീയ പദത്തെ ഗുണിച്ചാൽ ക്വാഡ്രാറ്റിക് റൈറ്റ് ആയിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി എല്ലാ ബഹുപദ പദങ്ങളും അവയെ സംയോജിപ്പിക്കാൻ നിസ്സാരമാണ് അതിനാൽ തീർച്ചയായും ഇപ്പോൾ അവശേഷിക്കുന്നത് എനിക്ക് 5 വേരിയബിളുകളിൽ ഒരു സമവാക്യം ലഭിച്ചിട്ടുണ്ടോ അടുത്തതായി ഞാൻ എന്തുചെയ്യും എനിക്ക് എങ്ങനെ മതിയായ സമവാക്യങ്ങളും മതിയായ വേരിയബിളുകളും ലഭിക്കും ഈ പയ്യൻ എന്റെ കയ്യിലുണ്ട് ഓരോന്നും വ്യത്യസ്ത വിഭാഗത്തിൽ പൂജ്യമല്ല അതിനാൽ എനിക്ക് വ്യത്യസ്ത സമവാക്യങ്ങൾ ലഭിക്കും എന്നാൽ എല്ലാ സമവാക്യങ്ങൾക്കും ഇപ്പോൾ ഈ ഞങ്ങളുടെ ചില സംയോജനമുണ്ടാകും അതിനാൽ നമ്മൾ ചെയ്യുന്നത് അതിനാൽ m ന്റെ വിവിധ മൂല്യങ്ങൾക്ക് പകരം വയ്ക്കുക സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം നേടുക ശരി ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഞങ്ങൾ ഒരു വിശദമായ 1 ഡി ഉദാഹരണം എടുക്കും അവിടെ നമ്മൾ സമവാക്യങ്ങളുടെ സിസ്റ്റം കൊണ്ടുവരും അപ്പോൾ ഈ നടപടിക്രമത്തിൽ വ്യക്തമല്ലാത്ത എന്തെങ്കിലും ഭാഗമുണ്ടോ നമുക്ക് വ്യക്തമാക്കാം ഇപ്പോൾ അതെ എന്ന് പൂർണ്ണമായും വ്യക്തമാക്കാം 1 മുതൽ 5 വരെ ആയിരിക്കും അവിടെ m എന്നത് ചില ഏകപക്ഷീയമായ കാര്യമാണ് m എന്നതിന് മൂലകങ്ങളുമായി ഒരു പരസ്പരബന്ധം ആവശ്യമില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ് കാരണം 4 മൂലകങ്ങൾ ഉള്ളതിനാൽ എത്ര ഘടകങ്ങൾ ഉണ്ട് അതിനാൽ m എന്നത് മൂലക സംഖ്യയാകാൻ കഴിയില്ല m മറ്റെന്തെങ്കിലും ആകും അത്തരത്തിലുള്ള മതിയായ വേരിയബിളുകളിൽ എനിക്ക് മതിയായ സമവാക്യങ്ങൾ ലഭിക്കുന്നു അത് എന്റെ ലക്ഷ്യമാണ് അപ്പോൾ മാത്രമേ എനിക്ക് അത് ശരിയായി പരിഹരിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് ഒന്നുകിൽ ആകാം അല്ലെങ്കിൽ ചില രേഖീയ സംയോജനമാണ് വേണ്ടത്ര സമവാക്യങ്ങളും മതിയായ വേരിയബിളുകളും നേടുക എന്നതാണ് എന്റെ അടിസ്ഥാന ലക്ഷ്യം അതിനാൽ ഇവ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നത് ഇനിപ്പറയുന്ന സ്ലൈഡുകളിൽ വിശദമായി നോക്കാം എന്നാൽ ഇവിടെ അടിസ്ഥാന ആശയം മതിയായ വേരിയബിളുകളിൽ മതിയായ സമവാക്യങ്ങളാണെങ്കിൽ അത് ഒബ്ജക്റ്റീവ് ശരിയാണ് അതിനാൽ ഞങ്ങൾ അത് തൽക്കാലം മാറ്റിവെക്കും ഇപ്പോൾ ഈ സമവാക്യം നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഒരു വിരളമായ സമവാക്യങ്ങൾ ലഭിക്കുന്നത് എന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്തുകൊണ്ടാണ് ഇത് വിരളമാണെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാമോ അതിനാൽ ഒരു മൂർത്തമായ ഉദാഹരണമായി നമുക്ക് 1 സമവാക്യം നോക്കാം എന്ന് പറയാം അതിനാൽ ഞങ്ങൾ ഈ ചടങ്ങായി എടുക്കും അതിനാൽ ഇത് മൂലകം 1 2 3 4 അപ്പോൾ ഈ ആകൃതി ഫംഗ്ഷന്റെ നൊട്ടേഷൻ എന്താണ് N മൂലക നമ്പർ 2 ഇടത്തോട്ടോ വലത്തോട്ടോ ആണ് ഇടത് നോഡിൽ ഇടത് 1 ആണ് അതിനാൽ ഇത് 1 അതെ ശരിയാണ് അതിനാൽ ഞാൻ ശരി തിരഞ്ഞെടുക്കാൻ പോകുന്നു ഈ ഷേപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാൻ ദുർബലമായ ഫോം പരീക്ഷിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന സമവാക്യങ്ങളുടെ സംവിധാനം വിരളമാണെന്ന് നമുക്ക് വാദിക്കാൻ കഴിയുമോ ഇത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം വിദ്യാർത്ഥി രണ്ടാം ടേം അതിനാൽ ഈ രണ്ടാം ടേം ഞാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം രണ്ടാമത്തെ ടേം രണ്ടാമത്തെ ടേം എന്താണ് ഡൊമെയ്ൻ മൂലകം 2 മാത്രമേയുള്ളൂ കാരണം ഞാൻ തിരഞ്ഞെടുത്ത ഈ N ഈ വ്യക്തി പൂജ്യമല്ല e2 വലതുവശത്ത് മാത്രം അതിനാൽ ഈ e ആണെങ്കിൽ ഈ e എല്ലാ ഘടകങ്ങളുടെയും സംഗ്രഹമാണ് അതിനാൽ ഈ e ഘടകം 1 3 അല്ലെങ്കിൽ 4 ലേക്ക് പോയാൽ എന്ത് സംഭവിക്കും വിദ്യാർത്ഥി 0 0 അതിനാൽ അവ ഇതിൽ ദൃശ്യമാകുമോ അവ ദൃശ്യമാകില്ല അവ 0 കൊണ്ട് ഗുണിക്കപ്പെടുന്നു അതിനാൽ ഈ സമവാക്യത്തിൽ പൂജ്യമല്ലാത്ത പദങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ ഇതിൽ പ്രത്യക്ഷപ്പെടുമോ വിദ്യാർത്ഥി e 2 ന് തുല്യം e 2 അക്കങ്ങൾക്ക് തുല്യമാണ് ഏത് e ഏത് നമ്മൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് e എന്നത് 2 ന് തുല്യമാണ് e എന്നത് 2 ന് തുല്യമാണ് അതിൽ ഏത് Us ഉണ്ട് വിദ്യാർത്ഥി ഒപ്പം വിദ്യാർത്ഥി യു അതിനാൽ അത് വിധേയമാക്കും എനിക്ക് ഇവിടെ ഒരു ടേം നഷ്ടമായെന്ന് ഞാൻ കരുതുന്നുണ്ടോ അവസാന ടേമിന് യു ഇല്ല അതെ അവസാന ടേമിന് യു ഇല്ല വിദ്യാർത്ഥി സ്ക്വയർ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് യഥാർത്ഥത്തിൽ അതെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല വിദ്യാർത്ഥി രണ്ടാം ടേം അവസാന ടേം വിദ്യാർത്ഥി അവസാനത്തേത് നിങ്ങൾ പറയുന്നതാണോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതിനാൽ നിങ്ങൾ പറയുന്ന ഈ പദം ഇതുപോലെ ആയിരിക്കണം അതിനാൽ ഇത് d x വലത് ആയിരിക്കും ഓരോ സെഗ്മെന്റിന്റെയും അവസാന പോയിന്റുകൾ ശരിയായിരിക്കും അതിനാൽ അവർ വാസ്തവത്തിൽ ഈ എൻഡ്പോയിന്റുകൾ റദ്ദാക്കും വിദ്യാർത്ഥി മുഴുവൻ ഡൊമെയ്നും സംയോജനമാണ് മുഴുവൻ ഡൊമെയ്നും വിദ്യാർത്ഥി ശരിയാണ് അവസാനഘട്ട കാലാവധി ഇത് യഥാർത്ഥത്തിൽ സംഗ്രഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അവസാന പോയിന്റ് പോലെ I സംഗ്രഹം ദൃശ്യമാകുന്നത് ഭാഗങ്ങൾ ശരിയായുള്ള സംയോജനമാണ് അതിനാൽ എന്തായാലും ഈ പദം നമ്മെ ശല്യപ്പെടുത്തുന്നില്ല കാരണം W അതിൽ നമ്മളെ എന്തായാലും ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല അതിനാൽ ഈ സമവാക്യത്തിൽ വരുന്ന U കൾ ശരിയായതും ആയിരിക്കും അതിനാൽ ഈ ഒരു സമവാക്യത്തിൽ എനിക്ക് 5ഉം ലഭിച്ചില്ലെന്ന് നിങ്ങൾ കാണുന്നു എന്നാൽ നമ്മുടെ ഇന്റഗ്രൽ സമവാക്യങ്ങളിൽ ഓർക്കുക ഞാൻ ആരെയെങ്കിലും പൾസ് ബേസ് ഫംഗ്ഷൻ എടുക്കുമ്പോഴെല്ലാം എനിക്ക് എല്ലാം ലഭിച്ചു എനിക്ക് ഒരു സാന്ദ്രമായ സമവാക്യങ്ങൾ ലഭിച്ചു എനിക്ക് n വേരിയബിളുകളിൽ n സമവാക്യങ്ങൾ ലഭിച്ചു ഓരോ സമവാക്യത്തിനും എല്ലാ വേരിയബിളുകളും ഉണ്ടായിരുന്നു അതിനാൽ ഇത് സമവാക്യങ്ങളുടെ സാന്ദ്രമായ സംവിധാനമായിരുന്നു അടിസ്ഥാനവും ടെസ്റ്റിംഗ് ഫംഗ്ഷനുകളും ഉപ ഡൊമെയ്നാണെന്നത് വസ്തുതയായി സംരക്ഷിക്കുന്നത് എന്താണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സീറോ അല്ലാത്ത മൊത്തത്തിലുള്ള സെഗ്മെന്റുകളില്ലാത്ത ഗ്രീൻ ഫംഗ്ഷൻ ഇല്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം അതാണ് എനിക്ക് പൂജ്യമല്ലാത്ത എല്ലാ നിബന്ധനകളും ഇവിടെ ലഭിക്കാൻ കാരണം 1 സെഗ്മെന്റിനെ മറ്റൊരു സെഗ്മെന്റുമായി ബന്ധിപ്പിക്കുന്ന ആഗോള തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ ഇല്ല അതിനാൽ പങ്കിട്ട അരികുകളോ പങ്കിട്ട നോഡുകളോ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും കപ്ലിംഗ് ഉണ്ടാകൂ അതിനാൽ ഇത് നമുക്ക് ഒരു നൽകുന്നു അതിനാൽ ഈ ആർഗ്യുമെന്റ് വ്യത്യസ്ത വ്യത്യസ്ത പദങ്ങൾ ആയി തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വിപുലീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഓരോ സമവാക്യത്തിനും മൊത്തം വേരിയബിളുകളുടെ ഒരു ഉപവിഭാഗം മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് സമവാക്യങ്ങളുടെ മൊത്തത്തിലുള്ള വിരളമായ സിസ്റ്റം ലഭിക്കുന്നത് അങ്ങനെയാണ്